എന്തുകൊണ്ടാണ് ഇത് രസകരമെന്ന് അർത്ഥമാക്കുന്നത് നമുക്ക് ഇവിടെ ഒരു വാല്യൂ ഉണ്ട് Vp cos ω t ϕ പിന്നെ വീണ്ടും ഞാൻ vC കണ്ടെത്തുന്നു പക്ഷേ സർക്യൂട്ടിൽ മറ്റേതെങ്കിലും വേരിയബിൾ കണ്ടെത്തിയാലും മതി ഈ ലളിതമായ സർക്യൂട്ട് ഞാൻ എല്ലായ്പ്പോഴും ഒരു ഉദാഹരണമായി ഉപയോഗിക്കും കാരണം അൾജിബ്രൈ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ നടപടിക്രമം മറ്റ് കാര്യങ്ങൾക്കും അതെ പോലെ തന്നെ എക്സ്പോണൻഷ്യലിനും ഉപയോഗിക്കാം യഥാർത്ഥ സർക്യൂട്ടിൽ എക്സ്പോണൻഷ്യൽ st എക്സ്റ്റൻഷൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഫസ്റ്റ് ഓർഡർ സർക്യൂട്ടിന്റെ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എക്സ്പോണൻഷ്യലിന്റെയും മറ്റൊരു പദത്തിന്റെയും പ്രോഡക്റ്റ് ആണെന്ന് നമുക്കറിയാം അതേ പോലെ നാച്ചുറൽ റെസ്പോൺസ് അല്ലെങ്കിൽ ട്രാൻസിയെന്റ്റ് റെസ്പോൺസ് എന്നാൽ എക്സ്പോണൻഷ്യൽ പാർട്ട് മൈനസ് 3 ഭാഗം സർക്യൂട്ടിന്റെ ടൈം കോൺസ്റ്റന്റ് ചെയ്തിട്ട് ഇനിഷ്യൽ കണ്ടിഷൻസ് മാറ്റി കൊടുക്കുന്നത് വഴി നമുക്ക് ഉത്തരം നേടാൻ കഴിയും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിനു എന്ത് സൊല്യൂഷൻ ആണ് ലഭിക്കുക ഇതിനായി വീണ്ടും Vc യുടെ ആവശ്യമുണ്ട് Vc ക്ക് ഒന്നിലധികം ഭാഗങ്ങൾ ഉണ്ടായിരിക്കാം അതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് കരുതുന്നത് നാച്ചുറൽ റെസ്പോൺസ് കൂടിയാണ് പിന്നെ ഫോർസ്ഡ് റെസ്പോൺസ് ഫോർസ്ഡ് റെസ്പോൺസ് എന്തായിരിക്കാം എന്തും ആകാം കാരണം ഞാൻ അർത്ഥമാക്കുന്നത് കൊസൈൻ സിഗ്നൽ ഡിഫേറെൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നത് സൈൻ സിഗ്നൽ ആണ് അതേ പോലെ തിരിച്ചും ഇത്തരത്തിലുള്ള സന്തുലിത പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഈ വശത്ത് നിങ്ങൾക്ക് കോസ് ω t ϕ ഉണ്ടെങ്കിൽ അത് റദ്ദാക്കേണ്ടതാണ് പക്ഷേ അപ്പോൾ Vc ക്ക് cos ω ϕ എന്ന വാല്യൂ കൊടുക്കാൻ സാധിക്കില്ല കാരണം അതിനെ ഡിഫേറെൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സൈൻ ലഭിക്കും എന്നാൽ നമുക്ക് മറ്റേതെങ്കിലും ആംഗിൾ തീറ്റ 𝞡 അവിടെ ഇടാം തുടർന്ന് അത് റദ്ദാക്കാനും ശ്രമിക്കാം α cos ω t ϕ β സൈൻ ω t ϕ ഇതിൽ എഴുതാം ഇവിടെ ഈ സൈൻ സന്തുലിതമാക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് കോസൈൻ ഉണ്ടായിരിക്കും അതിനാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇവ രണ്ടും സ്ഥിരമായി ലഭിക്കും നമുക്ക് ഒരിക്കലും സൈനെ കോസൈനുമായി സന്തുലിതമാക്കാൻ കഴിയില്ല കോസ് പദങ്ങളും സൈൻ പദങ്ങളും പുറത്തേക്കെടുത്തു ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫോർസ്ഡ് റെസ്പോൺസ് ലഭിക്കും മറ്റൊരു രീതിയിൽ ഇതിൽ നിന്ന് നാച്ചുറൽ റെസ്പോൺസും ലഭിക്കുന്നതാണ് നമ്മൾ ചെയ്യുമ്പോൾ നാച്ചുറൽ റെസ്പോൺസ് ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പ്രതികരണം ദയവായി നേടുക എനിക്ക് ഒരു പ്രത്യേക പാഠമുണ്ട് നിങ്ങളുടെ ഉത്തരത്തെ എന്റേതുമായി നിങ്ങൾക്ക് താരതമ്യം ചെയ്യാനാകുമെന്ന് ഞാൻ കാണിക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഈ V p cos ω t 5 എന്ന പദത്തിലാണ് ഇതിനെ നമുക്ക് Vp 2 എക്സ്പോണൻഷ്യൽ j ω t 5 എന്ന് എഴുതാം ഞാൻ ഉദ്ദേശിക്കുന്നത് മുഴുവൻ കാര്യങ്ങളും ഇത് ഗുണിക്കുക എന്നതാണ് അതിനാൽ എക്സ്പോണൻഷ്യൽ t യുടെ സൊല്യൂഷൻ നമുക്ക് നേരത്തെ അറിയാം ഇവിടെ മറ്റൊരു π ഉണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്നത് എക്സ്പോണൻഷ്യൽ jϕt ഉപയോഗിച്ചാണ് അത് മറ്റൊരു ഗുണന ഘടകം മാത്രമാണ് അതിനാൽ Vp എക്സ്പോണൻഷ്യൽ st ക്കു പരിഹാരം നമുക്കറിയാം s നെ j ω ഉപയോഗിച്ച് മാറ്റുകയാണെങ്കിൽ തുടർന്ന് ഈ V p 2 എക്സ്പോണൻഷ്യൽ j 5 എന്ന് എഴുതാം ഇവയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഫോർസ്ഡ് റെസ്പോൺസിന്റെ വാല്യൂ ലഭിക്കും നമ്മൾ ചെയ്യുമ്പോൾ നാച്ചുറൽ റെസ്പോൺസ് ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പ്രതികരണം ദയവായി നേടുക അതിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ താരതമ്യം ചെയ്യാനാകുന്ന വിധം ഞാൻ കാണിക്കും ഇത് ചെയ്യുന്നതിന് രണ്ട് വഴികളുണ്ട് ഒരു സൈനസോയിഡ് ഉണ്ടെങ്കിൽ സൊല്യൂഷൻ എല്ലായ്പ്പോഴും സൈനിന്റെയും കോസ് β സംയോജനമാണെന്ന് നിങ്ങൾക്ക് അറിയാം സമവാക്യത്തിലേക്കു ചേർക്കാം അപ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് വാല്യൂ ലഭിക്കും അപ്പോൾ നമുക്ക് സമവാക്യങ്ങൾ ലഭിക്കും സൈൻ സന്തുലിതമാക്കുന്നതിൽ നിന്ന് ഒരെണ്ണവും മറ്റൊന്ന് കോസൈൻ സന്തുലിതമാക്കുന്നതിൽ നിന്നും ആയിരിക്കും ഇവിടെ സിനുസോയ്ഡ് സങ്കീർണ്ണമായ ഒരു എക്സ്പോണൻഷ്യൽ കോമ്പിനേഷനായി പ്രകടിപ്പിക്കാൻ കഴിയും വളരെ ഉപയോഗപ്രദമായ ആശയം യഥാർത്ഥത്തിൽ സങ്കീർണ്ണമായ എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ സങ്കീർണ്ണമായ ബീജഗണിതം ഇല്ലാത്ത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇല്ല ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന എന്നാൽ കുറച്ചു ലാഗിങ്ങോട് കൂടിയ സ്റ്റെഡി സ്റ്റേറ്റ് റെസ്പോൺസ് ആണ് നിങ്ങൾ അത് എക്സ്പോണൻഷ്യൽ jωt മൈനസ് jωt ക്കായി ചെയ്യുകയും ഫലങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു ഈ സ്റ്റെഡി സ്റ്റേറ്റ് റെസ്പോൺസും നാച്ചുറൽ റെസ്പോൺസും എപ്പോഴും നമുക്കുണ്ടെന്നും ലീനിയർ സർക്യൂട്ടുകൾ സൂപ്പർ പൊസിഷൻ അനുസരിക്കുമെന്നും ഞങ്ങൾക്കറിയാം എന്നാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ അൽപം ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്റ്റെഡി സ്റ്റേറ്റ് റെസ്പോൺസ് സൂപ്പർ പൊസിഷനെ പിന്തുടരുന്നു അതായത് നിങ്ങൾക്ക് ഒരു ഇൻപുട്ട് ഉണ്ടെങ്കിൽ സ്റ്റെഡി സ്റ്റേറ്റ് റെസ്പോൺസും നിങ്ങൾ കണ്ടെത്തും നമുക്ക് α x β y ഉണ്ടെങ്കിൽ സ്റ്റെഡി സ്റ്റേറ്റ് റെസ്പോൺസ് സൂപ്പർ ഫോഴ്സ് ചെയ്യും α × ഫസ്റ്റ് സൊല്യൂഷൻ b × സെക്കന്റ് സൊല്യൂഷൻ നാച്ചുറൽ റെസ്പോൺസും ഇനിഷ്യൽ കണ്ടിഷൻസ് അനുസരിച്ചു വ്യത്യാസപ്പെടും എന്നാൽ ചില കണ്ടിഷനുകളിൽ നമുക്ക് ഇങ്ങിനെ ചെയ്യാൻ സാധിക്കില്ല ആ സമയം നമ്മൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്തു ഔട്ട്പുട്ട് എടുക്കുന്നു പിന്നീട് മറ്റൊരു ഇൻപുട്ട് കൊടുത്തു ഔട്ട്പുട്ട് എടുക്കുന്നു എന്നിട്ടു ഇവ രണ്ടും കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് തെറ്റായ ഫലം ആയിരിക്കും സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് തന്നെ സൂപ്പർ പൊസിഷനെ പിന്തുടരുന്നു നാച്ചുറൽ റെസ്പോൺസ് തന്നെ നിങ്ങൾ പരീക്ഷിച്ചു നോക്കുന്ന ഇനിഷ്യൽ കണ്ടിഷൻസിന്റെ അളവുകോലാണ് അതിനാൽ t 0 ആകുമ്പോൾ ഇത് 5 വോൾട്ടുകളിലേക്ക് ഉയരുന്നു തുടർന്ന് ഇത് അതേ സമയം 2 മില്ലിയാമ്പുകൾ അതിനാൽ ഇപ്പോൾ നിങ്ങൾ ആദ്യം ടോട്ടൽ റെസ്പോൺസ് കണ്ടെത്തുന്നു അതിന്റെ തെവിനിൻ ഇക്വിവാലെന്റ് എടുക്കുക തുടർന്ന് നിങ്ങൾ ഈ സൂപ്പർ പൊസിഷൻ ചെയ്യാൻ ശ്രമിക്കുക യഥാർത്ഥ പ്രതിഫലത്തിന്റെ അതേ ഫലം നിങ്ങൾക്ക് ലഭിക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ എന്താണ് തെറ്റായ ഫലം എന്ന് നോക്കുക കപ്പാസിറ്ററിന്റെ ഇനിഷ്യൽ കണ്ടിഷൻസ് നൽകുമ്പോൾ രണ്ട് ഉറവിടങ്ങളിൽ നിന്നുള്ള മൊത്തം പ്രതികരണത്തെ സൂപ്പർപോസ് ചെയ്യാൻ ശ്രമിക്കുക കപ്പാസിറ്ററിൽ നിങ്ങൾക്ക് Vc10 ഉണ്ടെന്ന് നിങ്ങൾ അനുമാനിക്കുന്നു